പ്രിയപ്പെട്ട പങ്കാളികളെ സ്വാഗതം മുമ്പത്തെ മൊഡ്യൂളുകളിൽ കൈകളുടെയും വിരലുകളുടെയും ചലനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നമ്മൾ കണ്ടു ഈ മൊഡ്യൂളിൽ നമ്മുടെ കാലുകൾ സ്ഥാപിക്കുന്നതിലൂടെ ഉള്ള ആശയവിനിമയത്തിലെ വ്യാഖ്യാനങ്ങളും മറ്റുള്ളവരുമായുള്ള ഔപചാരിക ആശയവിനിമയത്തിൽ കാലുകൾ എങ്ങനെ സ്ഥാപിക്കുന്നു എന്നതിനെക്കുറിച്ചും പഠിക്കും നമ്മുടെ കിനേസ്തെറ്റിക് സിഗ്നലുകളുടെ വിവിധ വശങ്ങളുടെ ധാരണകളിൽ പലതിലും ശാസ്ത്രീയ പിന്തുണ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻറെ വ്യാഖ്യാനങ്ങൾ സാമാന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ മറ്റ് ശരീരഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആശയവിനിമയത്തിൽ നമ്മുടെ കാലുകളും ഫീറ്റും ആണ് ഒരു വ്യക്തി മരിക്കുമ്പോൾ അത് സാധാരണഗതിയിൽ അവന്റെ ശരീരത്തിന്റെ താഴത്തെ ഭാഗത്തിലൂടെ വെളിപ്പെടുമെന്നും ശരീരത്തിന്റെ താഴത്തെ ഭാഗം മുകളിലേ ശരീര ഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ സിഗ്നലുകൾ ആശയവിനിമയം നടത്തുന്നു എന്നും അവർ അഭിപ്രായപ്പെട്ടു ഈ ആശയം ആദ്യം മുന്നോട്ട് വച്ചത് പോൾ എക്മാനും കണ്ടെത്തലുകൾ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കാലുകളെയും ഫീറ്റും അഭിപ്രായപ്പെട്ടു ഇങ്ങനെ ഉണ്ടാവാൻ ഭാഗികമായി കാരണം നമ്മുടെ മിക്ക ഇടപെടലുകളിലും ആളുകൾ നമ്മുടെ മുഖത്തും ചിലപ്പോൾ നമ്മുടെ കൈയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നമ്മുടെ മസ്തിഷ്കം മരവിപ്പിക്കുന്നതിനോ പ്രവർത്തിപ്പിക്കുന്നതിനോ ഒരു സിഗ്നൽ പകരുന്നു ഇതിലൂടെ നമ്മുടെ കാലുകളിൽ ഈ സഹജാവബോധം ദൃശ്യമാകുന്നു ഉദാഹരണത്തിന് നിങ്ങൾ വഞ്ചനാപരമായ പാതയിൽ ഒരാളെ പിന്തുടരുകയാണെങ്കിൽ നമ്മുടെ മുന്നിലൂടെ നടക്കുന്ന മറ്റൊരാൾ ഇടറുകയോ അല്ലെങ്കിൽ അവൻ നിർത്തുകയോ ചെയ്താൽ അതിന്റെ പിന്നിലെ കാരണത്തെക്കുറിച്ച് ബോധപൂർവ്വം ചിന്തിക്കാതെ നമ്മൾ ഉടനെ നടത്തം നിർത്തും അതിനാൽ ഈ സഹജമായ സിഗ്നലുകൾ നമ്മുടെ കാലുകളുടെ സഹായത്തോടെയും ഫീറ്റിൻറെ സ്ഥാനത്തിലൂടെയും ആശയവിനിമയം നടത്തുന്നു പ്രൊഫഷണൽ സാഹചര്യങ്ങളിൽ ഇവ പങ്കിടുന്നു നമ്മുടെ മുഖഭാവം നമ്മുടെ വികാരങ്ങൾ വെളിപ്പെടുത്തുന്നതുപോലെ നമ്മുടെ കാലുകളും ഫീറ്റിൻറെ അവർ വിശകലനം ചെയ്തു അവരുടെ വിശകലനം വളരെ രസകരമാണെന്നും പൊതുവായ ധാരണകളോട് വളരെ അടുത്താണെന്നും നമുക്ക് കാണാൻ കഴിയും 'എ' എന്ന സ്ഥാനം തിരഞ്ഞെടുത്ത വ്യക്തി ഒരു മനോഭാവമോ വിഷ്വൽ ചിന്തയോ നിർദ്ദേശിക്കുന്നു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു 'ബി' സ്ഥാനമുള്ള രണ്ടാമത്തെ വ്യക്തി വ്യക്തമായ ഒരു ഭാവനയുള്ള സ്വപ്നജീവിയാണ് മൂന്നാം സ്ഥാനം 'സി' തിരഞ്ഞെടുത്ത വ്യക്തി വ്യക്തിപരമായ കാര്യത്തിൽ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ഉള്ള ആളാണ് ഉദാഹരണത്തിന് ഷൂസിന്റെ തരം വസ്ത്രങ്ങളുടെ തരം ഒരാൾ ധരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങിയവ വ്യക്തി അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധാലുവായിരിക്കും നാലാമത്തെ സ്ഥാനമായ 'ഡി' സ്ഥാനത്തുള്ള വ്യക്തിക്ക് തുറന്നതും ക്രിയാത്മകവുമായ രീതിയിൽ വിമർശനങ്ങൾ സ്വീകരിക്കാൻ പ്രയാസമാണ് സാധാരണഗതിയിൽ ഈ പൊസിഷൻ തിരഞ്ഞെടുക്കുന്ന ആളുകൾ വിമർശനങ്ങൾ കേൾക്കുന്നതിനുപകരം ഉടനടി അവരുടെ പ്രതിരോധത്തിനു വേണ്ടി ശ്രമിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നതിനു സംഭാഷണ രീതികൾ മാറ്റിക്കൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് പുറത്തുകടക്കാൻ എല്ലായ്പ്പോഴും ശ്രമിക്കുകയും ചെയ്യുന്നു 'ഇ' സ്ഥാനം തിരഞ്ഞെടുത്ത വ്യക്തി വളരെ ധാർഷ്ട്യവും സ്ഥിരോത്സാഹവും ഉള്ള വ്യക്തിയാണ് അതെ സമയം തിടുക്കപ്പെടാത്തവനുമായി കാണുന്നു അവൻ അല്ലെങ്കിൽ അവൾ സ്വയം മെച്ചപ്പെടുത്തലിനായി ധാരാളം സമയം കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിരിക്കും കഴിയുന്നത്ര മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നതിൽ കഴിയുന്നത്ര മികച്ച രീതിയിൽ കാണുന്നതിലും കഴിയുന്നത്ര മികച്ച രീതിയിൽ പ്രകടനം നടത്തുന്നതിലും അവർ ശ്രദ്ധിക്കും അതിനാൽ ആ വ്യക്തി തിടുക്കപ്പെടാറില്ല മറിച്ച് തൻറെ അവസരത്തിനായി കാത്തിരിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നു അതേ സമയം നമ്മുടെ കിനേസ്തെറ്റിക് ബാക്കി ഭാഗങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നുവെങ്കിൽ അതിന് ഒരു നിശ്ചിത അരക്ഷിതബോധവും ആത്മവിശ്വാസക്കുറവും സൂചിപ്പിക്കാൻ കഴിയും എന്നിരുന്നാലും നമ്മൾ ഇരിക്കുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് സുഖപ്രദമായ ഒരു പൊസിഷൻ ആണ് നമ്മൾ അന്വേഷിക്കുന്നത് അതേസമയം തന്നെ സാമൂഹികവും സാംസ്കാരികവുമായ മാനദണ്ഡങ്ങൾ ലംഘിക്കരുതെന്നും നമ്മൾ ബോധവാന്മാരാണ് എന്നിരുന്നാലും നമ്മുടെ അബോധാവസ്ഥയിലുള്ള ആഗ്രഹങ്ങളും ധാരണകളും പ്രചോദിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ചില സന്ദേശങ്ങളും സിറ്റിംഗ് പൊസിഷനുകൾ സ്ഥാനം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി ഒരു തുറന്ന പ്രകൃതം അല്ലാത്ത മടിയുള്ളതുമായ വ്യക്തിയായി കാണപ്പെടുന്നു അതേസമയം കാൽമുട്ടുകളുടെ സ്ഥാനനിർണ്ണയത്തിലൂടെ പ്രകടമാകുന്ന പിരിമുറുക്കം ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്ന ഉത്കണ്ഠയുടെ നിലവാരത്തെക്കുറിച്ചും ധാരാളം വെളിപ്പെടുത്തുന്നു മിക്കപ്പോഴും നമ്മൾ ഒരു പ്രത്യേക പോസ്ചർ തിരഞ്ഞെടുക്കുമ്പോൾ ഈ സന്ദേശങ്ങൾ കൈമാറുന്നതിനെക്കുറിച്ച് നമുക്കറിയില്ലായിരിക്കാം പക്ഷേ നമ്മളെ നോക്കുന്ന മറ്റൊരാൾക്ക് ഈ സൂക്ഷ്മ നിർദ്ദേശങ്ങൾ മനസ്സില്ലായേക്കാം ഇനി സാധാരണയായി കാണപ്പെടുന്ന ചില പോസ്ചറുകളും സാധാരണയായി കാണുന്ന ഈ പൊസിഷൻന്റെ വ്യാഖ്യാനങ്ങൾ കാലുകൾ നീട്ടി വിശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവ കണങ്കാലിൽ ക്രോസ് ചെയ്തിരിക്കുകയാണോ അല്ലെങ്കിൽ കാൽമുട്ടിൽ ക്രോസ് ചെയ്തിരിക്കുകയാണോ അല്ലെങ്കിൽ കാൽമുട്ടിലോ കണങ്കാലിലോ എത്രമാത്രം പിരിമുറുക്കം ഉണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു കാലുകൾ നീട്ടി കണങ്കാലുകൾ അയഞ്ഞതായി ക്രോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇത് സാധാരണയായി ആ വ്യക്തി സുഖമായിരിക്കുന്നുവെന്നും സുഖപ്രദമായ ഒരു പൊസിഷൻ തിരഞ്ഞെടുത്തുവെന്നും സൂചിപ്പിക്കുന്നു ജോലിസ്ഥലത്ത് ആളുകൾ പലപ്പോഴും ഈ പോസ്റ്റർ തിരഞ്ഞെടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും കാരണം ഇത് ഒരു സുഖപ്രദമായ പോസ്റ്ററാണ് എന്നിരുന്നാലും കാലിൻറെ ക്രോസ് ഉറപ്പുള്ളതാണെങ്കിൽ ആ സമയത്ത് ഒരു വ്യക്തി അഭിമുഖീകരിക്കുന്ന പിരിമുറുക്കവും ഉത്കണ്ഠയും അത് ആശയവിനിമയം ചെയ്യുന്നു ഈ കാലിൻറെ ക്രോസിൽ കാണപ്പെടുന്ന പിരിമുറുക്കവും ഉത്കണ്ഠയും ഒന്നുകിൽ സംരക്ഷിതമോ പ്രതികൂലമോ ആകാം ഒരു പ്രത്യേക വ്യക്തിയിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വയം സംരക്ഷിക്കാനോ ഉള്ള ആഗ്രഹം ഇത് പ്രകടമാക്കുന്നു രണ്ടാമത്തെ ഫോട്ടോഗ്രാഫിൽ ലെഗ് ക്രോസ് ആം ക്രോസ്സിനു സമാനമാണ് വ്യക്തി പ്രതിരോധാത്മകനാണെന്ന് മാത്രമല്ല വൈകാരികമായി പിൻവലിയുകയും ചെയ്യുന്നുവെന്നും അതിനാൽ ചുറ്റുപാടിനെ സ്വീകരിക്കില്ലെന്നും ഇത് കാണിക്കുന്നു പ്രൊഫഷണൽ മാറ്റാനും അവരുടെ മനോഭാവങ്ങളിൽ കൂടുതൽ സ്വീകാര്യത നേടാനും കഴിയും ഇവിടെ റിലാക്സ് ചെയ്യുന്ന പൊസിഷനും പിരിമുറുക്കത്തിൻറെ പൊസിഷനും ഒപ്പം ലെഗ് ലോക്കിന്റെയോ ആംഗിൾ ലോക്കിന്റെയോ പൊസിഷൻ വന്നാൽ വ്യക്തി പ്രതിരോധാത്മക മനോഭാവം കാണിക്കുന്നു എന്നതാണ് വ്യാഖ്യാനം അലൻ പീസ് ഇതിനെ പിന്തുണച്ചുകൊണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറെയായി ആളുകളെ അഭിമുഖം നടത്തിയ അനുഭവത്തിൽ അഭിമുഖത്തിൽ ഒരു വ്യക്തി കണങ്കാലിൽ ലോക്ക് ചെയ്തിരിക്കുമ്പോൾ അയാൾ മാനസികമായി പിരിമുറുക്കപ്പെടുകയും ചുണ്ടുകൾ കടിക്കുകയും ചെയ്യുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു ഏതാണ്ട് നിർണായക രീതിയിൽ ഗവേഷകർ പറയുന്നത് ലോക്കിലെ പിരിമുറുക്കമാണ് ഒരു വ്യക്തി താരതമ്യേന ശാന്തനാണോ അതോ നെഗറ്റീവ് വികാരത്തെ തടഞ്ഞുനിർത്തുകയാണോ എന്ന് നിർദേശിക്കുന്നത് ഈ നിഷേധാത്മക വികാരം കോപമോ മറ്റുള്ളവരോടുള്ള കടുത്ത അനിഷ്ടമോ ആയിരിക്കണമെന്നില്ല ഇത് അനിശ്ചിതത്വത്തിന്റെയോ പരിഭ്രാന്തിയുടെയോ ഒരു മിതമായ വികാരമോ അല്ലെങ്കിൽ അഭിമുഖത്തിന്റെ സമയത്ത് ആളുകൾ സാധാരണയായി അഭിമുഖീകരിക്കുന്ന ഭയത്തിന്റെ ഒരു സാധാരണ അവസ്ഥയായിരിക്കാം എന്നിരുന്നാലും കസേരയുടെ അടിയിലേക്ക് കാലുകളും പിൻവലിക്കുകയാണെങ്കിൽ വ്യക്തിക്ക് പിൻവലിയുന്ന മനോഭാവമുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു നമ്മിൽ മിക്കവരും മുതിർന്നവരായ ഒരു വ്യക്തിയുമായി ഇടപഴകുമ്പോഴെല്ലാം നാം സ്വയം അറിയാതെ നമ്മുടെ കണങ്കാലുകളും കാലുകളും ലോക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നാം പ്രതിരോധ മനോഭാവത്തിൽ ആയിരിക്കണമെന്ന് നമുക്ക് തോന്നുന്നു കണങ്കാൽ ലോക്കിൽ ചില ലിംഗ വ്യത്യാസങ്ങളും ഉണ്ട് പുരുഷന്മാർക്കിടയിൽ കണങ്കാലിന്റെ ലോക്കിനൊപ്പം പലപ്പോഴും മുറുകെപ്പിടിച്ച മുഷ്ടികളും കാണാൻ കഴിയും അവ കാൽമുട്ടുകളിൽ വിശ്രമിക്കുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വ്യക്തി അനുഭവിക്കുന്ന പിരിമുറുക്കത്തെ ആശ്രയിച്ച് പലപ്പോഴും കൈകൾ കാൽമുട്ടിനു മുകളിലോ അല്ലെങ്കിൽ കസേരയുടെ കൈകളിലോ മുറുകെ പിടിക്കുന്നു മറുവശത്ത് സ്ത്രീകൾ സാധാരണയായി കണങ്കാലുകൾ ലോക്ക് ചെയ്യുമെങ്കിലും അല്പം വ്യത്യസ്തമായ പോസ്ചർ തിരഞ്ഞെടുക്കുന്നതായി കാണാം അവർ കൂടുതൽ വിശ്രമിക്കുന്ന രീതിയിലും ഔപചാരികവുമായി കാണപ്പെടുന്നു എന്നിരുന്നാലും ലിംഗവ്യത്യാസങ്ങൾക്കിടയിലും കണങ്കാൽ ലോക്കിന്റെ ആശയവിനിമയം സമാനമാണ് ഈ സ്ലൈഡിൽ ജോലിസ്ഥലത്തും സമാനമായ രണ്ട് പോസ്ചറുകൾ നോക്കും ആദ്യത്തേത് യൂറോപ്യൻ ലെഗ് ക്രോസ് എന്നറിയപ്പെടുന്നു അതിൽ വ്യക്തി സുഖമായി ഇരിക്കുന്നതായി കാണുന്നു ഒരു കാൽ മറ്റൊന്നിനു മുകളിലൂടെ വയ്ക്കുന്നു ഇതിൽ എല്ലായ്പ്പോഴും പ്രബലമായ കാലാണ് മറ്റേ കാലിനെ ക്രോസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ആളുകൾ വിശ്രമിക്കുന്ന പൊസിഷൻ തിരഞ്ഞെടുക്കുന്നു പുറകിലേക്കു ചാരിയിരിക്കുന്ന പോസ്ചർ ഇത് സാഹചര്യം വ്യക്തിയുടെ നിയന്ത്രണത്തിലാണെന്ന് ഈ സ്ഥലവുമായി നല്ല ബന്ധമുണ്ടെന്നും സൂചിപ്പിക്കുന്നു അതേസമയം വ്യക്തി സംസ്കാരം ഉള്ളവൻ ആണെന്നും ഒരു ബുദ്ധിജീവിയായി കാണിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇത് സൂചിപ്പിക്കുന്നു പൊതുവേ ആ വ്യക്തി കടന്നാക്രമിച്ചേക്കാം എന്നും സൂചിപ്പിക്കുന്നു ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ന്യൂമറിക്കൽ 4 പോസ്ചർ എന്നറിയപ്പെടുന്ന അടുത്ത പോസ്ചർ സൂചിപ്പിക്കുന്നത് ആ വ്യക്തി വാദപ്രതിവാദത്തിൽ ഏർപ്പെടും എന്നും അഭിപ്രായമുള്ള വ്യക്തിയാണെന്നും ആണ് ഈ വ്യക്തിക്ക് മറ്റ് ആളുകളുടെ അഭിപ്രായങ്ങളോട് ഒരു പരിധിവരെ ബഹുമാനമില്ല ധാർഷ്ട്യവുമുണ്ട് മാത്രമല്ല മറ്റ് ആളുകളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ അവർ തയ്യാറാകില്ല പോരായ്മകൾ ഉണ്ടായിരുന്നിട്ടും സ്വന്തം അഭിപ്രായത്തെ സ്ഥിരമായി മുറുകെപിടിക്കുന്നു സാധാരണയായി ഔപചാരിക സാഹചര്യങ്ങളിൽ ഒഴിവാക്കാൻ ആളുകൾ നിർദ്ദേശിക്കുന്ന പോസ്ചർ ആണ് ന്യൂമറിക്കൽ 4 പോസ്ചർ ഈ സ്ലൈഡിൽ സാഹചര്യങ്ങളിൽ രണ്ട് കൈകളും കാലിൽ മുറുകെപ്പിടിച്ചിരിക്കുന്നതായും ഒരു കാൽ മറ്റേ കാലിൻറെ മുകളിൽ തിരശ്ചീനമായി വിശ്രമിക്കുന്നതായും കാണാൻ കഴിയും ഈ വ്യക്തി കഠിനഹൃദയനും കഠിനമനസ്സുള്ളവനുമാണ് ചർച്ച ചെയ്യാനുള്ള മാനസികാവസ്ഥയില്ലാത്ത ഒരു വ്യക്തി എന്നിട്ടും ഈ വ്യക്തി തന്നിരിക്കുന്ന സാഹചര്യത്തിൽ വിചിത്രമായി ശാന്തത അനുഭവപ്പെടുകയും കുറച്ച് നേരം ഈ അവസ്ഥയിൽ തുടരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു നമ്മുടെ കൈകൊണ്ട് കാലിനെ മുറുകെപ്പിടിക്കുന്നത് നിശ്ചിത സമയത്തേക്ക് ഈ പൊസിഷനിൽ തുടരാൻ നാം ആഗ്രഹിക്കുന്നു എന്നും സൂചിപ്പിക്കുന്നു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു മനോഭാവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അവതരണങ്ങൾക്കിടയിലോ ഏതെങ്കിലും ആശയവിനിമയത്തിലോ മിക്ക ഡയലോഗുകളും ഉദ്ദേശിച്ച ഫലം കാണില്ല നമ്മൾ പറയാൻ പോകുന്നത് മിക്കതും അയാളുടെ മനോഭാവം മുറുകെപ്പിടിക്കാൻ വ്യക്തിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും ഇതിലൂടെ ഒടുവിൽ ശക്തമായ രീതിയിൽ അവർ ഇല്ല എന്ന് പറയും അതിനാൽ മറ്റ് ചില തന്ത്രങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വഴിതിരിച്ചുവിടലിനെക്കുറിച്ചോ ചിന്തിക്കേണ്ടത് പ്രധാനമാണ് അതുവഴി വ്യക്തിയുടെ ഈ ക്ലാമ്പ് ചെയ്ത പൊസിഷൻ പഴയപടിയാക്കാനും വ്യക്തിക്ക് തന്റെ ശരീരഭാഷയിൽ ശാന്തത അനുഭവപ്പെടാനും കഴിയും സുഖകരമായി തോന്നിപ്പിക്കുന്ന ശരീരഭാഷ പോസ്ചർ തലച്ചോറിലേക്ക് ചില സിഗ്നലുകൾ അയയ്ക്കുമെന്നും ഈ സാഹചര്യത്തിൽ വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിക്കാമെന്നും നമുക്ക് തോന്നാം നമുക്ക് നോക്കാവുന്ന മറ്റ് ചില പൊസിഷനുകൾ ലെഗ് ട്വിൻ സാധാരണയായി സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒന്നാണ് എന്നാൽ ഇത് പുരുഷന്മാരിലും സമാനമാണ് പാരലൽ ലെഗ്സ് ക്ലാസുകളിൽ തിരഞ്ഞെടുക്കാൻ സ്ത്രീകളെ പഠിപ്പിക്കുന്ന ഒരു പോസ്ചർ ആണിത് ഇത് ഒരു നിശ്ചിത നിലവാരത്തിലുള്ള ആത്മവിശ്വാസവും ആകർഷണീയതയും നിർദ്ദേശിക്കുന്നു എന്നിരുന്നാലും പുരുഷന്മാരിൽ ഇത് സാധാരണഗതിയിൽ സ്ത്രൈണയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സംഭാഷണത്തിനിടയിൽ ഒരാൾ ഇരിക്കുമ്പോൾ കാലിൽ അടിക്കുകയാണെങ്കിൽ അത് വികാരം അടക്കി നിർത്തുന്നതോ ശമിപ്പിക്കുന്നതോ ആയ പ്രവർത്തിയായി കണക്കാക്കപ്പെടുന്നു അത് ആവർത്തിച്ച് ചെയ്താൽ ഇത് ഒരു വ്യക്തിയുടെ പിരിമുറുക്കം കാണിക്കുന്നു എന്നിരുന്നാലും സ്ത്രീകളിൽ ഇത് പലപ്പോഴും നിഷ്കളങ്കമായ ആംഗ്യമായി കണക്കാക്കുന്നു എന്നാൽ ഇത് ഒഴിവാക്കണം ആദ്യത്തേത് മഹാരാജ പോസ്ചർ തിരഞ്ഞെടുക്കുകയും പരസ്പരം അഭിമുഖീകരിക്കുകയും ചെയ്യുന്നതായി കണ്ടെത്തിയാൽ സംഭാഷണം ആത്മവിശ്വാസമുള്ളതാണ് അത് പോസിറ്റീവ് ദിശയിലേക്ക് നീങ്ങുന്നു എന്ന അർത്ഥമാക്കുന്നു രണ്ടാമത്തെ പോസ്ചറിനെ ഇൻസ്റ്റൻറ്റ് ബൈ പോസ്ചർ എന്ന് വിളിക്കുന്നു ക്രിയാത്മക മനോഭാവമുള്ള ചർച്ച ചെയ്യപ്പെടുന്ന ഏതൊരു കാര്യത്തിനും സമ്മതിക്കുകയും ഒപ്പം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇത് സ്വീകരിക്കുന്നത് ഉദാഹരണത്തിന് നിർദ്ദേശം സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിയുടെ പോസ്ചർ ആണിത് ഇത് ബോധപൂർവമല്ലാതെ താടിയെല്ല് സ്ട്രോക്ക് ചെയ്യുന്നതിൻറെ ആംഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ആ വ്യക്തി ഈ നിർദ്ദേശം അംഗീകരിച്ചിട്ടുണ്ടെന്നും വിൽപ്പന ആരംഭിക്കാമെന്നും ഇത് സൂചിപ്പിക്കുന്നു അർദ്ധ ഔപചാരിക സാഹചര്യങ്ങളിൽ കാണപ്പെടുന്ന മറ്റ് ചില പോസ്ചറുകൾ ഉദാഹരണത്തിന് സഹപ്രവർത്തകരോ ടീം അംഗങ്ങളോ വളരെക്കാലമായി ഒരുമിച്ച് ജോലി ചെയ്യുന്ന ജോലിസ്ഥലത്ത് ഇരിക്കുമ്പോൾ അവർ കാലുകൾ വിരിച്ച് നീട്ടി ഇരിക്കുന്നു ഇത് നേരത്തെ സംഭവിച്ച ഒരു കാര്യത്തിന്റെ പ്രതികരണമായി അതിൻറെ സ്വീകാര്യം ഇല്ലായ്മയെ നിർദ്ദേശിക്കുന്നു മൊത്തത്തിലുള്ള വിശ്രമം നിർദ്ദേശിക്കുന്ന ഒരു പോസ്ചർ കൂടിയാണിത് എന്നിരുന്നാലും ചർച്ചയ്ക്കിടെ ഈ പോസ്ചർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ചർച്ചയിൽ നേരത്തെ സംഭവിച്ച കാര്യങ്ങൾ ഒന്നും വ്യക്തി സ്വീകരിക്കുന്നില്ലെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഇത് ശരീരത്തിന്റെ മുകൾ ഭാഗം എത്രത്തോളം പിന്നിലേക്ക് ചായുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഒപ്പം ഈ ചായ്വ് വ്യക്തി ഏതെങ്കിലും സംഭവത്തിനോടോ അല്ലെങ്കിൽ ചില വ്യക്തികളോടോ കാണിക്കാൻ ശ്രമിക്കുന്ന ദൂരത്തെ സൂചിപ്പിക്കുന്നു രണ്ടാമത്തെ പോസ്ചർ നോക്കിയാൽ അതിൽ ഒരാൾ കസേരയുടെ കയ്യിൻറെ മുകളിൽ ഒരു കാലു വെച്ച് ഇരിക്കുന്നു ആ വ്യക്തി ശാന്തനും തുറന്ന പ്രകൃതകാരനും അനൌപചാരിക പ്രകൃതം ഉള്ള വ്യക്തിയുമായി തോന്നാം എന്നാൽ മറുവശത്ത് യഥാർത്ഥ വികാരങ്ങൾ നേരെ വിപരീതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വ്യക്തി ശ്രദ്ധേയമായ വ്യത്യാസം മാത്രമല്ല മറ്റ് ആളുകളോടുള്ള കൃത്യമായ ശത്രുതയും കാണിക്കുന്നു ഇത് ഒരു ആധിപത്യസ്ഥാനത്തെയോ ഉയർന്ന സ്ഥാനത്തെയോ ആശയവിനിമയം നടത്തുന്നു അതിനാൽ ഈ നിലപാടിൽ ഇരിക്കുന്ന ഈ വ്യക്തിയുമായി ബന്ധപ്പെടുന്നത് ബുദ്ധിമുട്ടായിരിക്കും മൂന്നാമത്തെ പോസ്ചർ രണ്ടാമത്തേതിന്റെ വിപുലീകരണമായി കണക്കാക്കാം അത് അനൌപചാരികമോ സഹകരണപരമോ അല്ല സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഇവിടെ കസേരയുടെ പിൻഭാഗം ഒരു ഗ്രൂപ്പ് സാഹചര്യത്തിൽ ഒരു ഷീൽഡ് ആയി കണക്കാക്കപ്പെടുന്നു ഷീൽഡ് ഒരുപക്ഷേ മറ്റ് ആളുകളെയോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന വിഷയത്തെയോ ടാർഗെറ്റുചെയ്യുന്നു മാത്രമല്ല ഇത് രണ്ടാമത്തെ പോസ്ചറിന്റെ അർത്ഥം നിലനിർത്തുകയും ചെയ്യുന്നു പോസ്ചറിന്റെ പോസിറ്റീവ് നെഗറ്റീവ് അർത്ഥങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ നമ്മുടെ പോസ്ചറുകളുടെ സഹായത്തോടെ ഒരു നെഗറ്റീവ് ആശയവിനിമയം ഒഴിവാക്കാനും അതേ സമയം ഒരു ഗ്രൂപ്പ് ഇടപെടലിലെ മറ്റ് വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശ്യങ്ങൾ ഡീകോഡ് ചെയ്യാനും സഹായിക്കുന്നു നമ്മുടെ ഫീറ്റ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന മറ്റ് ആളുകളോടുള്ള നമ്മുടെ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്നു മറ്റുള്ളവരോട് നാം തുറന്നതും ക്രിയാത്മകവുമായ മനോഭാവം പുലർത്തുന്നുവെങ്കിൽ നമ്മുടെ തലയും കാലുകളും കാൽവിരലുകളും ആ വ്യക്തിയുടെ ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ഈ പോസ്ചർ മറ്റ് ആളുകളോടുള്ള നമ്മുടെ മനോഭാവത്തെക്കുറിച്ചും തിരിച്ചു അവരുടെ മനോഭാവത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ സഹായിക്കുന്നു മറുവശത്ത് സാഹചര്യം നെഗറ്റീവ് ആണെങ്കിലോ മനോഭാവത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലോ ഇത് ദൃശ്യമാണ് കാരണം ഇവിടെ കാലുകളും കാൽവിരലുകളും വ്യത്യസ്ത ദിശകളിൽ സ്ഥാപിക്കും തന്നിരിക്കുന്ന വീഡിയോയിൽ ഈ ആശയം രസകരമായി കാണിച്ചിരിക്കുന്നു ഫീറ്റ് ഒരു വ്യക്തിയുടെ ശരീരഭാഗങ്ങളിൽ സത്യസന്ധമായ ഒന്നാണ് പാദങ്ങൾ കാരണം നമ്മുടെ പാദങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നാം എല്ലായ്പ്പോഴും അറിയില്ല കസേര കാലുകൾക്ക് ചുറ്റും കണങ്കാലുകൾ ചുറ്റി ഇരിക്കുന്നത് വ്യക്തി പരിഭ്രാന്തനാണെന്നോ അവനെ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണെന്നോ സൂചിപ്പിക്കുന്നു അത്താഴം കഴിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഇത് ചെയ്യാറുണ്ട് ഒരു വ്യക്തിയുടെ ഒരു പാതത്തിൻറെ ഉപ്പുറ്റി നിലത്തുണ്ടെങ്കിൽ കാൽവിരലുകൾ മുകളിലേക്കു ചൂണ്ടി നിൽക്കുന്നുവെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ സ്വയം സന്തോഷിക്കുകയോ സ്വയം അഭിനന്ദിക്കുകയോ ചെയ്യുന്നു എന്നാണ് അർത്ഥം സാധാരണയായി ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇത് സംഭവിക്കുന്നു ഒരു വ്യക്തി കാൽ ടാപ്പു ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വ്യക്തി പരിഭ്രാന്തനാണ് അല്ലെങ്കിൽ അവിടെ നിന്നും പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാലുകൾ നീട്ടി കുനിഞ്ഞ് കണങ്കാലുകൾ ക്രോസ് ചെയ്തു ഇരിക്കുന്ന ഒരാൾക്ക് വിശ്രമമോ ആത്മവിശ്വാസമോ തോന്നുന്നു ഒരു വ്യക്തിയുടെ കാലുകൾ ക്രോസ് ചെയ്യുകയും പാദങ്ങൾ ചലിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് ബോറടിക്കുന്നു എന്നാണർഥം ഇത് വിവരിക്കാൻ മറ്റൊരു വഴിയുമില്ല പാദങ്ങൾ ചലിപ്പിച്ചുണ്ട് അല്പം നൃത്തം ചെയ്താൽ ആ വ്യക്തി സന്തോഷവതിയാണ് അല്ലെങ്കിൽ ആവേശഭരിതയാണ് അല്ലെങ്കിൽ രണ്ടും ആണെന്ന് സൂചിപ്പിക്കുന്നു ആരുടെയെങ്കിലും ശരീരം നിങ്ങളിലേക്ക് തിരിയുന്നുവെങ്കിലും കാലുകൾ നിങ്ങളിലേക്ക് തിരിയുന്നില്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോടൊപ്പമുണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് താൽപ്പര്യമുള്ള എന്തെങ്കിലും ഉള്ള ദിശയിലേക്ക് കാലുകൾ തിരിഞ്ഞിരിക്കുന്നു അതിനാൽ അവരുടെ പാദം നിങ്ങളിൽ നിന്നും മാറിയ ദിശയിലേക്ക് തിരിഞ്ഞ് ഇരിക്കുമ്പോൾ അവരുടെ പാദം എവിടെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് നിങ്ങൾ കാണാൻ താൽപ്പര്യപ്പെട്ടേക്കാം കാരണം അവർ താൽപ്പര്യപ്പെടുന്ന കാര്യങ്ങളുടെ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ അവർ പോകാൻ ആഗ്രഹിക്കുന്ന ഇടത്തേക്കോ ആയിരിക്കും പാദം തിരിഞ്ഞിരിക്കുന്നത് ഒരു കാൽ വലിക്കാൻ അല്ലെങ്കിൽ ചവിട്ടാൻ തുടങ്ങിയാൽ ഇത് വ്യക്തി അസന്തുഷ്ടനാണെന്ന് കാണിക്കുന്നു കാലുകൾ വിശാലമായി അകറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തിക്ക് അധികാരമുണ്ടെന്നും ചിലപ്പോൾ വ്യക്തിക്ക് ദേഷ്യം ഉണ്ടെന്നും തോന്നിപ്പികാം അലറുക കാര്യമാക്കണ്ട എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന ഭാവം ആളുകൾ സാധാരണയായി അവർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സുഖപ്രദമായി തോന്നുന്ന ഒരാളുടെ നേരെ ഒരു കാൽ ക്രോസ് ചെയ്യുന്നു അതു തിരിച്ചും അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് സുഖപ്രദമല്ലാത്ത ആരുടെയെങ്കിലും അരികിൽ ഇരിക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് ദൂരേക്ക് നിങ്ങളുടെ കാല് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് ആളുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ അവരിൽ ഒരാളിൽ നിന്നും നിങ്ങളുടെ കാല് ക്രോസ് ചെയ്യേണ്ടിവരുമ്പോൾ ഈ പ്രശ്നമുണ്ട് അത് അസഹ്യമാണ് എന്നാൽ ഇത് നിങ്ങൾക്ക് മാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നിങ്ങളുടെ ശരീരഭാഷ എന്താണ് പറയുന്നതെന്ന് അവർക്ക് അറിയില്ലായിരിക്കാം അവസാനമായി രണ്ടുപേർ ഒരുമിച്ച് നടക്കുമ്പോൾ അവരുടെ ചുവടുകൾ വലത്തോട്ടും ഇടത്തോട്ടും ഒരേ സമയം പോകുമ്പോൾ അവർ പരസ്പരം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ ഒരുപക്ഷേ സുഹൃത്തുക്കളാകാമെന്നും അർത്ഥമാക്കുന്നു അത് സാങ്കേതികമായി ഒരു നിയമമല്ലെങ്കിലും അവർ പരസ്പരം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നു നമ്മുടെ സിറ്റിംഗ് പോസ്ചർ

സ്ട്രെഡ്ലിംഗ് സ്റ്റാൻസ് കലഹത്തിൽ ഏർപ്പെടാനുള്ള വ്യക്തിയുടെ മനോഭാവത്തെ സൂചിപ്പിക്കുന്നു സാധാരണയായി ഇത് ഒരു പ്രൊഫഷണൽ സാഹചര്യത്തിലും ഒരിക്കലും തിരഞ്ഞെടുക്കാത്ത ഒരു പോസ്ചർ ആണ് പാരലൽ സ്റ്റാൻസ് നിൽക്കുന്നത് ഒരു ഔപചാരിക പൊസിഷൻ ആണ് അത് ഒരു പ്രതിബദ്ധതയില്ലാതെ നിഷ്പക്ഷ മനോഭാവം കാണിക്കുന്നു ഒന്നുകിൽ നിൽക്കുകയോ പോകുകയോ ചെയ്യുക എന്ന മനോഭാവം സാധാരണഗതിയിൽ താഴ്ന്ന പദവി വഹിക്കുന്ന വ്യക്തികളിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട പദവി വഹിക്കുന്ന വ്യക്തികളിൽ ജൂനിയർ ഓഫീസർമാർ മുതിർന്ന വ്യക്തിയിൽ നിന്ന് ഒരു നിർദ്ദേശം സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ചെറുപ്പക്കാരായ കുട്ടികകളിൽ എന്നിവരിൽ ഈ പൊസിഷൻ കാണാൻ കഴിയും ഇത് വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഒരു നിശ്ചിത മടി സൂചിപ്പിക്കുന്നു വ്യക്തിക്ക് ആത്മവിശ്വാസമില്ല പരസ്യമായി ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല എന്നിരുന്നാലും ഇത് ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് സന്നദ്ധയും ഉടനടി അനുസരണയും സൂചിപ്പിക്കുന്നു ബറ്റ്റസ് സ്റ്റാൻസ് അല്പം വ്യത്യസ്തമാണ് ഈ പൊസിഷനിൽ നാം നമ്മുടെ ഭാരം ഭൂരിഭാഗവും നേരായ സപ്പോർട്ടിംഗ് ലെഗിൽ സ്ഥാപിക്കുന്നു മറ്റേ കാലിനെ ബറ്റ്റസ് ആയി സേവിക്കാൻ അനുവദിക്കുന്നു ഈ പൊസിഷൻ സ്വീകരിക്കുന്ന ആളുകൾ ചിലപ്പോൾ സുഖമായി നിൽക്കുന്ന ആളുകളായി കാണപ്പെടും എന്നിരുന്നാലും ആ വ്യക്തിക്ക് ചുറ്റുമുള്ള സംഭവങ്ങളിൽ താൽപ്പര്യമില്ലെന്നും അല്ലെങ്കിൽ ആദ്യ അവസരം ലഭിച്ചാലുടൻ അവിടെനിന്നും ഓടി പോകാനുള്ള ആഗ്രഹമുണ്ടെന്നും ഇത് സൂചിപ്പിക്കുന്നു രണ്ട് കാലുകളും നിലത്ത് വച്ച് നിൽക്കുന്നത് നിഷ്പക്ഷവും ശക്തവുമായ പൊസിഷൻ ആണ് ഈ ഫോട്ടോയിൽ ഒരു വ്യക്തിയുടെ കാലുകൾക്കിടയിൽ സ്റ്റാൻഡേർഡ് അകലമുണ്ട് കൂടാതെ കാലുകൾ നിലത്ത് ഉറച്ചുനിൽക്കുന്നതായി കാണാം ഇത് സ്ഥിരതയുള്ളതും ഫോക്കസ് ചെയ്യുന്നതുമായ പൊസിഷൻ ആണ് ഇത് ഒരു കലഹത്തിൻറെ സ്വഭാവം കാണിക്കുന്നില്ല മാത്രമല്ല ഇത് ഒരു നോൺവെർബൽ ശബ്ദവും ഉണ്ടാകുന്നില്ല അതിനാൽ ഇത് സാധാരണയായി ഔപചാരികവും കേന്ദ്രീകൃതവുമായ ഒരു സ്ഥാനമായി കണക്കാക്കപ്പെടുന്നു ഏതൊരു പ്രൊഫഷണൽ സാഹചര്യത്തിലും നമ്മുടെ ഇടപെടലുകൾ ആരംഭിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച പൊസിഷൻ ആണ് ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫുട്ട് ഫോർവേർഡ് പൊസിഷൻ എന്നും അറിയപ്പെടുന്നു വ്യക്തമായും ഒരു പ്രതിരോധ സ്റ്റാൻസ് ഒരു നെഗറ്റീവ് പോസ്റ്റർ ആണ് ഇതിന് ഒരു നിശ്ചിത കാഠിന്യമുണ്ട് എന്നിരുന്നാലും കാഠിന്യത്തിന്റെ വ്യാപ്തി കൈയുടെ കാഠിന്യത്തിന്റെയും മുഖഭാവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അവ ക്ലോസ്ഡും തിരഞ്ഞെടുത്ത വ്യക്തി സംഭാഷണത്തിലൂടനീളം ഇരിക്കും എന്നും ചർച്ചകൾ നടുവിൽ ഉപേക്ഷിച്ച് നടക്കില്ല എന്നും നിർദ്ദേശിക്കുന്നു ചില സമയങ്ങളിൽ ഇത് സമർപ്പിക്കൽ നടപടിയായി കണക്കാക്കപ്പെടുന്നു അത് ഒരു അക്ഷമയും അറിയിക്കുന്നില്ല വ്യക്തി അവിടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ഇത് ഒരു വ്യക്തിയ്ക്കോ അല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിനോ ഒരു പരിധി വരെ സുരക്ഷയും സൂചിപ്പിക്കുന്നു അതിനാൽ ഇത് ഒരു വ്യക്തിയുടെ പ്രതിരോധവും സുരക്ഷയും സൂചിപ്പിക്കുന്ന ഒരു നെഗറ്റീവ് പൊസിഷൻ ആണെങ്കിലും അത് തിടുക്കത്തിലുള്ള ഒരു പോസ്ചർ അല്ല മറ്റൊരാൾ ക്ഷമയുള്ളവനാണെങ്കിൽ സംഭാഷണത്തിലൂടെ നിഷേധാത്മകതയെ ഈ പൊസിഷനിൽ നിന്ന് മാറ്റാൻ കഴിയും അടുത്തത് ഫിഡ്ജെറ്റിംഗ് ഫീറ്റ് വിശ്രമിക്കുന്ന ഫീറ്റിന്റെ പോസിഷനിൽ നിന്നും വിപരീതമാണ് ഈ പോസിഷനിൽ നിന്ന് മാറാനും സാഹചര്യം ഉപേക്ഷിച്ച് പലായനം ചെയ്യാനും ഉള്ള ഒരു വ്യക്തിയുടെ തിടുക്കത്തിലുള്ള മനോഭാവമാണ് സൂചിപ്പിക്കുന്നത് നിൽക്കുമ്പോൾ ഒരു വ്യക്തി തന്റെ അക്ഷമയെ സൂചിപ്പിക്കുന്നതിന് ഒരു കാൽ ആവർത്തിച്ച് ടാപ്പുചെയ്യാം അതുപോലെ നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഒരാൾ തൻറെ കാൽ ടാപ്പുചെയ്യുന്നത് അക്ഷമയെ പ്രതീകപ്പെടുത്തുന്നു അതേ സമയം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തിക്കുള്ള അസംതൃപ്തിയും ഇത് സൂചിപ്പിക്കാം ചില സമയങ്ങളിൽ കാൽ ടാപ്പുചെയ്യുന്ന വ്യക്തിക്ക് ഒരു തക്കതായ ഉത്തരം കൈമാറുന്നതിനോ സംഭാഷണത്തിലേക്ക് എന്തെങ്കിലും ചേർക്കുന്നതിനു താൽപ്പര്യമുണ്ടെന്നും ഈ സാഹചര്യത്തിൽ വ്യക്തിക്ക് പങ്കെടുക്കാനും സംസാരിക്കാനും അവസരം നൽകേണ്ടതുണ്ട് എന്നും സൂചിപ്പിക്കുന്നു പ്രൊഫഷണൽ സാഹചര്യങ്ങളിൽ ഫിഡ്ജെറ്റിംഗ് ഫീറ്റ്ന്റെ ഒരു നെഗറ്റീവ് ബോഡി പോസ്ചറായി കണക്കാക്കരുത് കാരണം വ്യക്തിക്ക് അടിസ്ഥാനപരമായി ഒരു സ്പീക്കറിനോടും അതുപോലെ ഒരു പൊസിഷനോടും നല്ല മനോഭാവമുണ്ട് സംഭാഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റേ വ്യക്തിയുടെ തിരക്കിൻറെ കാരണം കണ്ടുപിടിക്കാൻ ശ്രമിക്കണം പാദങ്ങൾ ടീറ്ററിംഗ് ചെയ്യുന്നതിൻറെ കാരണങ്ങൾഎന്തുകൊണ്ടാണ് അസ്ഥിരത ഉള്ളത് എന്നിങ്ങനെ സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ കണ്ടെത്താനും അത് തൃപ്തികരമായ രീതിയിൽ പരിഹരിക്കാനും എന്തുകൊണ്ടാണ് ഈ അസ്ഥിരത ഉള്ളതെന്നും കണ്ടെത്താൻ ശ്രമിക്കണം സ്റ്റോമ്മ്പ്പിങ് ഫീറ്റ് നമ്മുടെ ശത്രുതയെ സൂചിപ്പിക്കുന്നു ഇത് സാധാരണയായി ഒരു ബാലിശമായ പെരുമാറ്റമായി കണക്കാക്കപ്പെടുന്നു മുതിർന്നവരിൽ ഇത് ഒരു കടുത്ത കോപത്തിന്റെ പ്രതിഫലനമാണ് അല്ലെങ്കിൽ കടുത്ത നിരാശയാണ് സൂചിപ്പിക്കുന്നത് അത് എല്ലായ്പ്പോഴും ഒഴിവാക്കണം 45 ഡിഗ്രി ഓപ്പൺ പൊസിഷൻ എന്നറിയപ്പെടുന്ന പൊസിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഓപ്പൺ പൊസിഷനിൽ മൂന്ന് ആളുകളുടെ പെരുമാറ്റം നോക്കേണ്ടതുണ്ട് രണ്ടുപേർ ഇതിനകം തന്നെ സംഭാഷണത്തിൽ ഏർപ്പെടുകയും മൂന്നാമത്തെ വ്യക്തി അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇതിനകം സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ടുപേർ മൂന്നാമത്തെ വ്യക്തിയെ സംഭാഷണത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടതായി തോന്നിപ്പിക്കുന്ന ഒരു പൊസിഷനിലേക്ക് നീങ്ങേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്ന രണ്ടുപേർ ഒരു ക്ലോസ്ഡ് മനോഭാവത്തോടെ തുടരുകയും കാലുകളുടെയോ കാലുകളുടെ പൊസിഷൻ അല്പം പോലും തുറക്കാതിരിക്കുകയും ചെയ്താൽ മറ്റേയാൾക്ക് ഒരു പുറത്തുനിൽക്കുന്ന ആൾ ആയി തോന്നുന്നു ഈ പൊസിഷനിൽ സംഭാഷണത്തിൽ അയാളുടെ പങ്കാളിത്തം അസാധ്യമാണ് ഓപ്പണും ക്ലോസ്ഡുമായ ശരീര സ്ഥാനങ്ങൾ മറ്റ് ആളുകളുമായി പരസ്യമായി ഇടപഴകാനുള്ള നമ്മുടെ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നു ഒരു ഗ്രൂപ്പിലോ ഡയാഡിലോ നമുക്ക് കൂടുതൽ സുഖം തോന്നാൻ തുടങ്ങുകയും മറ്റുള്ളവരെ അറിയുകയും ചെയ്യുമ്പോൾ നമ്മൾ നിരവധി ശരീര ചലനങ്ങളിലൂടെ സഞ്ചരിക്കുകയും തുടർന്ന് ആദ്യത്തെ ഫോട്ടോയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നതുപോലെ ക്രോസ്ഡ് കൈകളും കാലുകളും ഉപയോഗിച്ച് പ്രതിരോധാത്മക പൊസിഷൻ തിരഞ്ഞെടുക്കുന്നതിന് പകരം രണ്ടാമത്തേതിൽ കാണിച്ചിരിക്കുന്നതുപോലെ നമുക്ക് ക്രമേണ കൂടുതൽ ശാന്തവും ഓപ്പണുമായ പൊസിഷൻലേക്ക് പോകാൻ കഴിയും ആദ്യ ഫോട്ടോയിലെ ബോഡി സിഗ്നലുകൾ ആംഗ്യങ്ങൾ പോസ്ചറുകൾ എന്നിവ നോക്കുകയാണെങ്കിൽ അവ പരസ്പരം അനിശ്ചിതത്വത്തിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും മറുവശത്ത് രണ്ടാമത്തെ ഫോട്ടോഗ്രാഫിൽ ഇത് താരതമ്യേന തുറന്ന സ്വീകാര്യതയാണ് ദൃശ്യമാകുന്നത് അത് ആംഗ്യങ്ങളിലൂടെയും പോസ്ചറുകളിലൂടെയും പ്രദർശിപ്പിക്കുന്നു ഒരു നെറ്റ് വർക്കിംഗ് ഇവന്റിനിടെ ചലനങ്ങളുടെ വിശകലനം നടത്തിയതാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ആരോടെങ്കിലും സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സംഭാഷണത്തിൽ പങ്കെടുക്കുന്നതിനുമുമ്പ് അവരുടെ മാനസിക അവസ്ഥ അവരുടെ കാലുകളുടെയും ഫീറ്റ്ൻറെയും പൊസിഷനിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും ടോപ്പിക്ക് ലെഗ് ആൻഡ് ഫീറ്റ് നിങ്ങൾ മത്സരത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കാൽമുട്ടിന് താഴെ നടക്കുന്ന ചലനങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രകടമായ രണ്ട് ഭാഗങ്ങളാണ് പാദങ്ങൾ എന്നത് അറിയപ്പെടുന്ന വസ്തുതയാണ് ഇനി എങ്ങനെയാണ് നമ്മുടെ ലെഗ് ആൻഡ് ഫീറ്റ് ആശയവിനിമയം നടത്തുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ അരയിൽ നിന്ന് മുകളിലേക്കുള്ള ശരീരഭാഷ നോക്കിയാൽ ആ വ്യക്തി വ്യാപൃതനായിരിക്കുന്നു എന്ന് തോന്നാം പക്ഷേ വാസ്തവത്തിൽ അവൻ തന്റെ പാദത്തിന്റെ ദിശയിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത് വാതിലിനു വെളിയിൽ ഒരു നെറ്റ്വർക്കിംഗ് ഇവന്റിൽ ഈ ആളുകളെ നോക്കാം അവിടെ ഇരിക്കാൻ ഇഷ്ടമില്ലാതെ മറ്റെവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ അയാളെ കണ്ടു പിടിച്ചു കാലുകളും ഫീറ്റും വാതിലിൻറെ ദിശയിലേക്ക് തിരിച്ചു വച്ചിരിക്കുന്ന ആൾ കാലുകളും ഫീറ്റും പരസ്പരം ഒരേ ദിശയിലേക്ക് തിരിഞ്ഞ് ഇരിക്കുന്നതിനാൽ ഈ രണ്ട് ആളുകൾ പരസ്പരം ശരിക്കും ഇഷ്ടപ്പെടുന്നുവെന്ന് ഇവിടെ വ്യക്തമാണ് നിൽക്കുന്ന പൊസിഷനുകളിലും ഇത് ബാധകമാണ് വാസ്തവത്തിൽ രണ്ടുപേർ ഇവിടെ കാണുന്ന രണ്ടുപേരെപ്പോലെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾ കാണുമ്പോൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുന്നതാണ് ബുദ്ധി നിങ്ങൾ സ്വയം ലജ്ജിച്ചേക്കാം എന്നാൽ നിരാശപ്പെടരുത് ഇതിനകം പുരോഗതിയിലുള്ള ഒരു സംഭാഷണത്തിൽ ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാനാകും ആദ്യം മറ്റൊരാളെ ഉൾപ്പെടുത്തുന്നതിനായി തുറന്ന മനോഭാവമുള്ള രണ്ടു പേർ അല്ലെങ്കിൽ മൂന്നുപേർ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ടെത്തുക എന്നാൽ അവർ മറ്റൊരാളെ ഉൾപ്പെടുത്തുന്നതിനായി തുറന്ന മനോഭാവമുള്ളതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും നിങ്ങൾ കണ്ടു പിടിച്ചു കാലുകളുടെയും ഫീറ്റിൻറെയും പൊസിഷനിൽ നിന്ന് സംഭാഷണത്തിൽ ഉൾപ്പെടുത്താനുള്ള നിങ്ങളുടെ അവസരം വർദ്ധിപ്പിക്കുന്നതിനുള്ള രണ്ടാമത്തെ മാർഗം ഒരു കോപ്പികാറ്റ് ആകുക എന്നതാണ് ആളുകൾ അവർ ഇഷ്ടപ്പെടുന്ന ആളുകളുമായി സംവദിക്കുമ്പോൾ അവർ കൂടെയുള്ള കൂടെയുള്ള ആളുടെ ശരീരഭാഷയെ പ്രതിഫലിപ്പിക്കുകയോ പകർത്തുകയോ ചെയ്യും നമ്മൾ അവരെ പ്രതിഫലിപ്പിക്കുന്നുത് നമ്മൾ ഒരേ മനസ്സുള്ള വരെ പോലെയാണെന്നും അതിനാൽ ഹാംഗ് ഔട്ട് ചെയ്യുന്നത് സുരക്ഷിതമാണെന്നും ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് അതിനാൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭാഷണവുമായി പൊരുത്തപ്പെടാനുള്ള ഒരു മികച്ച മാർഗം ഇതിനകം സംസാരിക്കുന്ന ആളുകളെ പ്രതിഫലിപ്പിക്കുക എന്നതാണ് അവർ നിങ്ങളെ മനസ്സിലാക്കുകയും സംഭാഷണത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പുറത്തുപോയി നിങ്ങളുടെ മികച്ച പ്രകടനം മുന്നോട്ട് വയ്ക്കാൻ മതിയായ വിവരങ്ങൾ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് കാൽമുട്ടിൻറെ പോയിന്റുകൾ നോക്കാം അവ നമ്മുടെ മനോഭാവത്തെക്കുറിച്ച് കൃത്യമായി എന്താണ് സൂചിപ്പിക്കുന്നത് കാൽമുട്ട് പോയിന്റിൽ എ ബി എന്നിവ ന്യൂമറിക്കൽ 4 പോസ്ചർ ഓർമ്മപ്പെടുത്തുന്നു മറ്റൊരാളെ നിരസിക്കുന്ന മനോഭാവം കാണിക്കുന്നതായി ഇതിൽ കാണാം ആദ്യത്തെ ഫോട്ടോ എ യിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നതുപോലെ കാൽമുട്ട് മറ്റൊരാളുടെ ദിശയിലേക്കാണ് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ അത് മറ്റൊരാളുടെ നേരിട്ടുള്ള നിരസനമോ അയാളുടെ പ്രസ്താവനയുടെ നിരസനമോ ആണ് ബി യിൽ നമുക്ക് കാണാം ഉപ്പൂറ്റി മാത്രമാണ് മറ്റേ വ്യക്തിയുടെ ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് ചില സംസ്കാരങ്ങളിൽ ഇത് അങ്ങേയറ്റം അപമാനകരമായ ഒന്നായിട്ടാണ് കാണപ്പെടുന്നത് എല്ലാ സംസ്കാരങ്ങളിലും എന്നിരുന്നാലും ഇത് നിരസിക്കാനുള്ള ഒരു പോസ്ചർ ആയിട്ടാണ് കാണപ്പെടുന്നത് മാത്രമല്ല ഇത് വളരെ നെഗറ്റീവ് ആയി കണക്കാക്കപ്പെടുന്നു ഇത് സംഭാഷണത്തിന്റെ തുറന്ന ഒഴുക്ക് ഉടനടി നിർത്തുകയും ഏത് സംഭാഷണത്തിലും ഹാനികരവുമാണ് നമ്മുടെ കാൽവിരലുകളുടെ സ്ഥാനമാണ് നമ്മുടെ മനോഭാവത്തിന്റെ പോസിറ്റീവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവിറ്റി സൂചിപ്പിക്കുന്നത് മുകളിലേക്ക് ചൂണ്ടുന്ന കാൽവിരലുകൾ വ്യക്തി നല്ല മാനസികാവസ്ഥയിലാണെന്നോ പോസിറ്റീവ് ആയ എന്തെങ്കിലും കേൾക്കാൻ സാധ്യതയുണ്ടെന്നോ സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിൽ ഒരു പിക്നിക് പ്രഖ്യാപിക്കണമെങ്കിൽ ഏറ്റവും ഉത്സാഹമുള്ള വിദ്യാർത്ഥികൾ ഉടൻ തന്നെ കാൽവിരലുകൾ മുകളിലേക്ക് നീക്കും ഫോണിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി കാൽവിരലുകൾ മുകളിലേക്ക് ചൂണ്ടുന്നുവെങ്കിൽ അത് ഒരു നല്ല വാർത്തയോ അല്ലെങ്കിൽ ആസ്വാദ്യകരമായ സംഭാഷണമോ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം നേരെമറിച്ച് പിജിയൺ ടോസ് ഒരു വ്യക്തിയുടെ ശരീരത്തിൻറെ ആകൃതി ചെറുതാണെന്ന പ്രതീതി ഉണ്ടാക്കുകയും ആ വ്യക്തി മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നില്ല എന്നും വ്യക്തിക്ക് മറ്റുള്ളവരെ ഭീഷണിപ്പെടുതാത്ത തരം പ്രോഫൈൽ ആണെന്നും ഉള്ള വസ്തുത സൃഷ്ടിക്കുന്നു ഇത് നമ്മുടെ വിധേയത്വവും സൌമ്യതയും മറ്റ് ആളുകളുടെ ആധിപത്യത്തിനുള്ള സന്നദ്ധതയും കാണിക്കുന്നു സിനിമകളിലെ വികാരങ്ങളുടെ സ്റ്റോക്ക് എക്സ്പ്രഷനായി ഉപയോഗിക്കുന്ന ആംഗ്യങ്ങളിൽ ഒന്നാണ് ഇത് ഈ വീഡിയോയിൽ ശരീരഭാഷാ വിദഗ്ധനായ കരോൾ കിൻസി ഗോമാൻ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഒരാളുടെ പാദം എന്താണ് പറയുന്നതെന്ന് വിശകലനം ചെയ്തതത് നമുക്ക് കാണാം അവരുടെ ശരീരഭാഷ നിയന്ത്രിക്കുക അവരുടെ മുഖഭാവം കൈ കൈ ആംഗ്യങ്ങൾ എന്നിവയിലാണ് അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാലുകളും പാദങ്ങളും എല്ലായ്പ്പോഴും ബോധപൂർവ്വം അല്ല പ്രവർത്തിക്കുന്നത് അതുകൊണ്ടുതന്നെ സത്യം കണ്ടെത്തുന്ന ഇടം കൂടിയാണിത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ തരാം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സഹപ്രവർത്തകനോട് സംസാരിക്കുകയാണെങ്കിൽ അവന്റെ ശരീരത്തിൻറെ മുകൾഭാഗം നിങ്ങളുടെ നേർക്ക് അഭിമുഖീകരിക്കുന്നു എന്നാൽ കാലുകളും പാദങ്ങളും വാതിലിനടുത്തേക്ക് തിരിയുന്നു എങ്കിൽ ആ വ്യക്തി പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുക ആരെങ്കിലും കാലുകൾ ക്രോസ് ചെയ്തു ഇരുന്നാൽ പോലും പദത്തിൻറെ പൊസിഷൻ വെളിപ്പെടുത്തുന്നു ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ അരികിലിരുന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു എന്റെ കാൽവിരൽ നിങ്ങളിലേക്ക് പോയിൻറ് ചെയ്തിരിക്കുന്നു അത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നു അല്ലെങ്കിൽ എനിക്ക് അതിൽ താല്പര്യം ഉണ്ട് എന്നതിൻറെ ഒരു സൂചനയാണ് എന്റെ കാൽവിരൽ നിങ്ങളിൽ നിന്ന് അകറ്റുന്നതിനായി ഞാൻ എന്റെ കാലുകൾ ക്രോസ് ചെയ്തു ഇരിക്കുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്ക് ഒരുപക്ഷേ സംഭാഷണത്തിൽ എന്റെ താൽപ്പര്യം നഷ്ടപ്പെട്ടിരിക്കാം എന്ന് സൂചിപ്പിക്കുന്നു കാലുകളും പാദങ്ങളും നീട്ടിയാൽ അർത്ഥമാക്കുന്നത് ഒരാൾക്ക് സുഖകരമോ സുരക്ഷിതമോ ആണെന്ന് തോന്നുന്നു എന്നാണു എന്നാൽ കണങ്കാലുകൾ ലോക്ക് ചെയ്തു പിൻവലിക്കുകയോ അല്ലെങ്കിൽ കസേരയുടെ കാലുകളിൽ ചുറ്റുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് സുരക്ഷിതമല്ലാത്തതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആയ തോന്നൽ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു പാദങ്ങൾ ടാപ്പുചെയ്യൽ എന്ന് വിളിക്കുന്നു പോക്കറിൽ ഇത് ഉയർന്ന ആത്മവിശ്വാസമുള്ള കഥയാണ് തനിക്ക് ശക്തമായ കൈ ഉണ്ടെന്ന് കളിക്കാരന് തോന്നുന്നതിന്റെ സൂചന ബിസിനസ്സ് ചർച്ചകളിൽ സമാനമായ ഒരു സിഗ്നൽ ഉണ്ട് ആരുടെയെങ്കിലും പാദങ്ങൾ ബൌൺസ് ചെയ്താൽ ആ ബൌൺസിംഗിൽ നിന്നുള്ള പ്രതികരണമായ തോളും ബൌൺസ് ചെയ്താൽ ആ വ്യക്തിക്ക് ഒരു നല്ല വിലപേശൽ സ്ഥാനം ലഭിച്ചുവെന്ന് ആണ് സൂചിപ്പിക്കുന്നത് ഞാൻ ശുപാർശ ചെയ്യുന്ന മറ്റൊരു വീഡിയോ തന്നിരിക്കുന്ന ലിങ്കിൽ കയറി നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് എന്റെ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാലും താല്പര്യമുള്ളവർക്ക് ഇത് കണ്ടു നോക്കാം ഏതൊരു പ്രൊഫഷണൽ ഇടപെടലിലും കാലുകളുടെ പാദങ്ങളുടെ സ്ഥാനവും നിർദ്ദേശിക്കുന്ന എന്റെ ചർച്ച ഞാൻ അവസാനിപ്പിക്കുന്നു അടുത്ത മൊഡ്യൂളിൽ നമ്മൾ പാരലാംഗ്വേജജിനെ കുറിച്ച് പഠിക്കും